സോളിഡ് വർക്കുകൾ തുടരുന്നു ഹലോ എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന ഞങ്ങളുടെ ഓൺലൈൻ എൻപിടിഎൽ ക്ലാസുകളിലേക്ക് സ്വാഗതം മുമ്പത്തെ ക്ലാസുകളിൽ നമ്മൾ മാനുവൽ ഡ്രോയിംഗിനെക്കുറിച്ച് പഠിച്ചു അതിനുശേഷം ഉപരിതല മോഡലിംഗ് അവതരിപ്പിച്ചു തുടർന്ന് സോളിഡ് വർക്ക് സോഫ്റ്റ്വെയറിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു സോളിഡ് വർക്ക് സോഫ്റ്റ്വെയറിൽ അവസാന ക്ലാസ്സിൽ പ്രത്യേകിച്ചും നമ്മൾ 2 ഡി സ്കെച്ചുകൾ പഠിക്കാൻ ശ്രമിച്ചു അവ എങ്ങനെ വരയ്ക്കാം എന്നും ഇന്നത്തെ ക്ലാസ്സിൽ 2 ഡി സ്കെച്ചുകളെക്കുറിച്ച് കൂടുതലറിയുകയും തുടർന്ന് 3D സ്കെച്ചുകൾ നിർമ്മിക്കാൻ മുന്നോട്ട് പോകുകയും ചെയ്യും വ്യൂ സെക്ഷൻസ് എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ച് പിന്നീട് പഠിക്കും നമുക്ക് നമ്മുടെ സെഷൻ ആരംഭിക്കാം സോളിഡ് വർക്ക്സ് ഐക്കണിൽ ഇരട്ട ക്ലിക്കുചെയ്തതിനുശേഷം ഇത്തരത്തിലുള്ള വിൻഡോ ലഭിക്കും അതിനുശേഷം ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു പുതിയ ഡ്രോയിംഗ് തുറക്കുക എന്നതാണ് അതിൽ നമ്മൾ ഭാഗത്തെക്കുറിച്ച് പഠിക്കുന്നു തുടർന്ന് ഒകെ ബട്ടൺ ക്ലിക്കുചെയ്യുക തുടർന്ന് ഈ പേജ് തുറക്കുന്നു ഇപ്പോൾ ഏതെങ്കിലും സ്കെച്ച് വരയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾ ഫ്രണ്ട് പ്ലേയ്നിൽ ആരംഭിക്കുന്നു ഫ്രണ്ട് പ്രതലം എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് പ്രത്യേക മുൻഗണനകളൊന്നുമില്ല എന്നാൽ ഇത് ഇന്നത്തെ ക്ലാസ്സിനായി പിന്തുടരുന്നത് ആർക്കുകളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു പോളിഗോൺ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ 1 2 3 4 5 6 വശങ്ങളുള്ള പോളിഗോൺ ഉണ്ട് ഇപ്പോൾ 6 ന് പകരം എനിക്ക് 4 വേണമെങ്കിൽ ഇവിടെ ചതുരത്തിൽ 4 വശങ്ങളുള്ള ഒരു പോളിഗോൺ നിർമ്മിക്കുന്നു അതിനാൽ എല്ലായ്പ്പോഴും ഒരു വൃത്തം നിർമ്മിച്ച് ചുറ്റളവിൽ പോളിഗോൺ നിർമ്മിക്കും ഉദാഹരണത്തിന് ഞാൻ 8 എന്ന ആക്കം സൂക്ഷിച്ച് ഒക്ടാകോൺ നിർമ്മിക്കാൻ പോകുകയാണെങ്കിൽ ആ വലുപ്പത്തിലുള്ള ഒക്ടാകോൺ നിർമ്മിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് ചില കോണുകളുണ്ട് എനിക്ക് എല്ലായ്പ്പോഴും 90 ഡിഗ്രി ഉണ്ടാക്കാം ഇതും 90 ഡിഗ്രിയാണ് അതിനാൽ എല്ലാം വിന്യസിക്കുന്ന തരത്തിൽ അത് തിരിക്കും ഏത് പോളിഗോണും നിർമ്മിക്കുന്ന രീതിയാണിത് ഇപ്പോൾ നമ്മൾ ഒന്നിലധികം പോളിഗോണുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് തിരഞ്ഞെടുക്കുക എന്റെ മൌസ് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നീക്കുക എസ്കേപ്പ് ബട്ടൺ അമർത്തുക തുടർന്ന് നമ്മൾ മറ്റൊരു ബഹുഭുജം ചെയ്തു ഇപ്പോൾ നമുക്ക് ഒരു സ്പ്ലൈൻ നിർമ്മിക്കാൻ പോകാം അതിനാൽ സ്പ്ലൈനിനായിആ ബട്ടൺ തിരഞ്ഞെടുക്കുക അടുത്ത പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കും അടുത്ത പോയിന്റിലേക്ക് അവിടെ നിന്ന് അവിടേക്കും മാറ്റുക പരുക്കനല്ലാത്ത കർവുകൾ ബന്ധിപ്പിക്കുന്നതിന് ഒരാൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്പ്ലൈൻ ഇന്റർപോളേഷൻ അല്ലെങ്കിൽ സ്പ്ലൈൻ കർവുകൾ എല്ലായ്പ്പോഴും ഉപയോഗപ്രദമാണ് മാത്രമല്ല ഇതിന് വ്യത്യസ്ത തരത്തിലുള്ള സ്പ്ലൈനുകൾ ഉണ്ട് സ്റ്റൈൽ സ്പ്ലൈൻ സമവാക്യങ്ങൾ നൽകുന്ന കർവ് അവിടെ നമ്മുക്ക് സമവാക്യങ്ങൾ വ്യക്തമാക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് സ്കെച്ച് ഫില്ലറ്റ് സ്കെച്ച് ചാംഫർ Sketch Chamfer എന്നിവയെക്കുറിച്ച് പഠിക്കാം ഇവയാണ് സുഗമമായ ഉപരിതലങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് സ്കെച്ച് ഫില്ലറ്റ് ഉപയോഗിക്കാം ഈ വശത്തേക്ക് മൂർച്ചയുള്ള ഒരു കോണിൽ ഒന്നാമത്തതും രണ്ടാമത്തതും നമ്മൾ എടുക്കാൻആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു മഞ്ഞ നിറം പോലെയുള്ള ഒന്ന് കാണാവുന്നതാണ് അവിടെ ദൂരം 10 മില്ലീമീറ്റർ തരത്തിലുള്ള ഫില്ലറ്റ് കാണിക്കുന്നു അതിനുപകരം നമ്മൾ 20 മില്ലീമീറ്റർ വ്യക്തമാക്കാൻ പോകുന്നുവെങ്കിൽ അത് 20 മില്ലീമീറ്റർ ദൂരം കാണിക്കുന്നു അതിനുപകരം നമ്മൾ 5 കാണിക്കുന്നുവെങ്കിൽ മിനുസമാർന്ന ഉപരിതലം അത് നിർമ്മിക്കും അത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ ശരി ബട്ടൺ ക്ലിക്കുചെയ്യണം എന്നിട്ട് നമ്മൾ ആ ഭാഗം സൂം ചെയ്യുകയാണെങ്കിൽ അത് മൂർച്ചയുള്ള ഒരു കോണാകില്ല നമുക്ക് ആ 5 ആരം ഉള്ള ഫില്ലറ്റ് അളവ് കാണിക്കുന്നു അതുപോലെ നമുക്ക് ചാംഫർ ബട്ടൺ ഉപയോഗിക്കാം ഇവിടെ നമുക്ക് ഒരു ചാംഫർ ഉണ്ട് അതിനാൽ ഇത് തിരഞ്ഞെടുക്കാം ഇപ്പോൾ നിങ്ങൾ കട്ട് ഉപയോഗിച്ച് നീക്കം ചെയ്ത എഡ്ജ് കാണുകയാണെങ്കിൽ മൂർച്ചയുള്ള അരികുകൾ ആ കട്ട് ഉള്ളിടത്ത് ഈ പോയിന്റുകൾ തമ്മിലുള്ള ദൂരം 10 മില്ലീമീറ്ററും 10 മില്ലീമീറ്ററുമാണന്നു ആ ചാംഫർ ഉള്ളിടത്ത് നിന്ന് വ്യക്തമാക്കുന്നു ഇതാണ് നമ്മൾ ചാംഫെറിംഗും ഫില്ലറ്റും ഉപയോഗിക്കുന്നത് അവസാന ക്ലാസിൽ പവർ ട്രിമിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു നമുക്ക് ട്രിം ഉപയോഗിക്കണമെങ്കിൽ ഉദാഹരണത്തിന് രണ്ട് ഡാറ്റാ പോയിന്റുകൾക്കിടയിലുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ നീക്കം ചെയ്താൽ ഇവിടെ ആദ്യത്തെ ഡാറ്റാ പോയിന്റ് രണ്ടാമത്തെ ഡാറ്റ പോയിന്റ് അവിടെ കർവ്ഡ് ആണ് അതിനാൽ നമ്മൾ പവർ ട്രിം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒബ്ജക്റ്റിനെ നീക്കംചെയ്യുന്നു പക്ഷേ ഇവിടെ സ്പ്ലൈൻ ഒരു തുടർച്ചയായ വക്രമാണ് എന്നിരുന്നാലും നമ്മൾ എവിടെ നിന്ന് നിർമ്മിക്കാൻ പോകുന്നുവെന്നത് പോലെ പോയിന്റുകൾ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പവർ ട്രിം ഉപയോഗിക്കുമ്പോൾ അത് മുഴുവൻ വസ്തുവിനെയും നീക്കംചെയ്യുന്നു എന്തായാലും പോയിന്റുകൾക്കിടയിൽ നിങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ഒബ്ജക്റ്റും നീക്കംചെയ്യുന്നു അതുപോലെ ഒരാൾക്ക് ഒരു എലിപ്സ് നിർമ്മിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആദ്യം ഒരു ഡാറ്റാ പോയിന്റ് തിരന്നെടുക്കുക രണ്ടാമത്തെ ഡാറ്റ പോയിന്റ് എന്ന ക്രമത്തിൽ നിങ്ങൾ അത് ചുറ്റും നീക്കുകയാണെങ്കിൽ ദീർഘവൃത്തം കാണാവുന്നതാണ് തുടർന്ന് പ്രധാന അക്ഷം ചെറിയ അക്ഷം ഇത്തരത്തിലുള്ളവ ക്രമീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു ലൈൻ ഉപയോഗിക്കാം അതിനായി ആ ലൈൻ അളവിനെ അടിസ്ഥാനമാക്കി നമുക്ക് എല്ലായ്പ്പോഴും അർദ്ധവൃത്തത്തെ ചുരുക്കാനോ ദീർഘവൃത്തത്തെ വലുതാക്കാനോ കഴിയും ഇപ്പോൾ ഓഫ്സെറ്റ് ജ്യാമിതികൾ എന്ന് പേരുണ്ട് മുമ്പത്തെ ക്ലാസുകളിൽ നമ്മൾ നിർമ്മിക്കുന്ന ഉപരിതലങ്ങളിൽ ഓഫ്സെറ്റ് തരത്തിലുള്ള ഉപരിതലങ്ങൾ ആവശ്യമായി വന്നേക്കാം അതിനായി നമ്മൾ ഓഫ്സെറ്റ് എന്റിറ്റികൾ ഉപയോഗിക്കുന്നു അത് ഉപയോഗിക്കുന്നതിന് നമുക്ക് ഈ ആകൃതിയിലുള്ള ഒബ്ജക്റ്റായ ഒക്റ്റഗൺ പോലെയുള്ള ഒന്ന് നിർമ്മിക്കാം ഇപ്പോൾ ഇതിനായി ഓഫ്സെറ്റ് നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ആ പോയിന്റ് തിരഞ്ഞെടുക്കുക തുടർന്ന് 10 മില്ലീമീറ്റർ അല്ലെങ്കിൽ 20 മില്ലീമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഓഫ്സെറ്റ് നിർമിക്കുക നമ്മൾ അതിൽ ക്ലിക്കു ചെയ്തു കഴിഞ്ഞാൽ ഓക്കേ ക്ലിക്കുചെയ്യാം അതിനുപുറത്ത് ഓഫ്സെറ്റ് നിർമ്മിക്കാൻ പോകുന്നു അത് അകത്തേക്ക് മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് ഓഫ്സെറ്റ് ഇപ്പോൾ റിവേഴ്സ് ആക്കുക എന്നതാണ് അതിനാൽ അകത്തും നമുക്ക് ഇത് നിർമ്മിക്കാൻ കഴിയും അതിനാൽ എല്ലായ്പ്പോഴും വ്യത്യസ്ത ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും ഈ ഓപ്ഷനുകൾ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കുന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ആന്തരിക ബാഹ്യ തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ നിർമ്മിക്കുന്ന അവസ്ഥയിലായിരിക്കും ഈ ലീനിയർ സ്കെച്ച് പാറ്റേൺ എന്ന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു ശക്തമായ കാര്യമുണ്ട് ഉദാഹരണത്തിന് ഒരു വരിയിലോ നിരയിലോ നിരവധി ഒബ്ജക്റ്റുകൾ ഗുണിക്കാനോ ഉത്പാദിപ്പിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നു സർക്കിളിന് ശേഷം സർക്കിൾ പോലെയുള്ളവ നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി നമ്മൾ ഈ ലീനിയർ സ്കെച്ച് പാറ്റേൺ ഉപയോഗിക്കാവുന്നതായാണ് ഒരു സർക്കിൾ പോലെയുള്ള ഒന്ന് ഈ വസ്തു നമ്മൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ലീനിയർ സ്കെച്ച് പാറ്റേൺ ക്ലിക്കുചെയ്യുക എന്നതാണ് അപ്പോൾ അത് എത്ര ദൂരം ഉണ്ടായിരിക്കണമെന്ന് ചോദിക്കുന്നു അതിനാൽ നമുക്ക് 20 മില്ലീമീറ്റർ എന്ന് പറയാം അപ്പോൾ അതാണ് കാര്യം 60 മില്ലീമീറ്റർ ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ എക്സ് ദിശയിൽ നാലെണ്ണം ഉണ്ടായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് 1 2 3 4 സമാനമായ രീതിയിൽ രണ്ട് വരികൾ ആദ്യ വരി രണ്ടാമത്തെ വരി എന്നിവ നമ്മൾ ആഗ്രഹിക്കുന്നു Y അക്ഷത്തിൽ ഈ ആവശ്യത്തിനായി നമുക്ക് 40 മില്ലീമീറ്റർ ദൂരമുള്ള രണ്ട് വരികൾ മൈനസ് 40 മില്ലീമീറ്ററിൽ ഉപയോഗിക്കാം ഈ ഒബ്ജക്റ്റ് ആവർത്തിച്ചുള്ള പാറ്റേൺ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിനായി ഇവിടെ ഇത് ഒരു നെഗറ്റീവ് നമ്പർ എടുക്കുന്നില്ല അതിനാൽ സോളിഡ് വർക്ക് അനുവദിക്കുന്ന പരമാവധി വലുപ്പത്തിന് ഇത് എല്ലായ്പ്പോഴും 0 ആണ് ഇപ്പോൾ ഒരു ചതുരാകൃതിയിലുള്ള ഗ്രിഡ് അല്ലെങ്കിൽ ഒരാൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന പോയിന്റുകളുടെ എണ്ണം ഇതാണ് ഇപ്പോൾ നമുക്ക് ഒരു വൃത്താകൃതിയിലുള്ള പാറ്റേൺ നോക്കാം ഈ പോയിന്റുകളെല്ലാം മായ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഒന്നാമതായി ഇടത് ബട്ടൺ നിങ്ങൾ തിരഞ്ഞെടുക്കുക എല്ലാം തിരഞ്ഞെടുക്കാനായി ക്ലിക്കുചെയ്യുക തുടർന്ന് ബട്ടൺ ഉപേക്ഷിക്കുക തുടർന്ന് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും തുടർന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് അമർത്താവുന്നതാണ് എല്ലാവർക്കും അതെ എന്ന് അമർത്താം ഇപ്പോൾ ഒരു ഒക്ടഗോൺ പോലെയുള്ള ഒരു പാറ്റേൺ കൂടി നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് ഒരു വൃത്താകൃതിയിൽ ആവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ ചില ചുറ്റളവിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള പാറ്റേണിൽ ക്ലിക്കുചെയ്യുമ്പോൾ നമുക്ക് 4 ഒക്ടാകോണുകൾ 8 ഒക്ടാകോണുകൾ വേണമെങ്കിൽ അതാവാം അതിനാൽ നമ്മൾ വ്യക്തമാക്കാൻ പോകുന്ന സംഖ്യയെ അടിസ്ഥാനമാക്കി ആ ഉപരിതലത്തെ സ്പർശിക്കണമോ അതോ ആ ഉപരിതലത്തിൽ നിന്ന് അകന്നുപോകണോ എന്ന് നമുക്ക് എല്ലായ്പ്പോഴും വ്യക്തമാക്കാൻ കഴിയും കൂടാതെ 360 ഡിഗ്രി പൂർത്തിയാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ 270 ഡിഗ്രി മാത്രം ഞാൻ ഘടികാരദിശയിൽ 270 ഡിഗ്രി ക്ലിക്കുചെയ്യുമ്പോൾ അത് 270 ഡിഗ്രി വരെ കാണിച്ച് ശരി ക്ലിക്കുചെയ്യുക പാറ്റേണുകൾ നമ്മുക്ക് വൃത്താകൃതിയിൽ ആവർത്തിക്കുന്ന രീതി ഇതാണ് നീക്കൽ എന്റിറ്റികളും പോലുള്ള നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് നമുക്ക് ഇവിടെ മറ്റൊരു ദീർഘവൃത്തമുണ്ട് ഇത് നീക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് ഡ്രാഗ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്റിറ്റികൾ നീക്കുക എന്നതിലേക്ക് പോയി ആ ഒബ്ജക്റ്റിൽ വീണ്ടും ക്ലിക്കുചെയ്യുക ആവശ്യമായ ലൊക്കേഷനിലേക്ക് നീക്കി ഡ്രോപ്പ് ചെയ്യുക ഇത് വ്യക്തിഗത എന്റിറ്റിക്കായി ചെയ്യുന്നു രണ്ട് മൂന്ന് വ്യക്തിഗത എന്റിറ്റികൾ അവ ഒരുമിച്ച് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ആ ഹൈലൈറ്റ് ചെയ്ത ഒരു ഭാഗം മാത്രമേ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ ഡ്രോയിംഗ് ഷീറ്റിൽ കുറച്ച് വാചകം എഴുതാൻ ആഗ്രഹമുണ്ടങ്കിൽ നമുക്ക് എപ്പോഴും ഇതുപോലൊന്ന് എഴുതാം അതിനാൽ ഇതിൽ കമ്പ്യൂട്ടറിന്റെ വലുപ്പം പോലെയുള്ള ഒന്ന് കാണാം അളവുകൾ അടിസ്ഥാനമാക്കി നമ്മൾ എത്ര വലുതായിരിക്കുമെന്ന് തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഈ കമ്പ്യൂട്ടർ പിന്നീട് കാണും അതിനാൽ നിങ്ങൾ ടൈപ്പുചെയ്യുമ്പോൾ അത് നമ്പറുകൾ കാണിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എഴുതാം ആന്തരികമായി നിരവധി ഓപ്ഷനുകൾ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ആ വാചകം വ്യത്യസ്ത ശൈലികളിലേക്ക് മാറ്റാൻ കഴിയും ത്രീഡി ഒബ്ജക്റ്റുകൾ എങ്ങനെ നിർമ്മിക്കാം നിർമ്മിച്ച മെറ്റീരിയലുകൾ പൂരിപ്പിക്കുന്ന എക്സ്ട്രൂഡ് തരത്തിലുള്ള കമാൻഡുകൾ എങ്ങനെ ഉപയോഗിക്കാം മെറ്റീരിയലുകളുടെ ഒരു ഭാഗം എങ്ങനെ നീക്കം ചെയ്യാം ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആ ഒബ്ജക്റ്റിന്റെ സൈഡ് വ്യൂ അതിന്റെ ഭാഗങ്ങൾ മുറിക്കുക ടോപ്പ് വ്യൂ സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂ എന്നിവ നിർമ്മിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് ഒരു കാര്യം കൂടി അവർക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പ മാർഗ്ഗം നേരിട്ട് അവർക്ക് ഫ്രണ്ട് കാഴ്ചയിലേക്ക് പോകാം കൂടാതെ ഉദാഹരണത്തിന് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്നിവ പോലുള്ള എന്തെങ്കിലും നിർമ്മിക്കാൻ നമ്മൾ 2 ഡൈമൻഷണൽ ഒബ്ജക്റ്റിനായി എന്തെങ്കിലും നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു സൈഡ് വ്യൂ എനിക്ക് എല്ലായ്പ്പോഴും ചെയ്യാൻ കഴിയുന്നത് ടോപ്പ് വ്യൂ സൈഡ് വ്യൂ എനിക്ക് എല്ലായ്പ്പോഴും നീക്കാൻ കഴിയും അങ്ങനെ അത് ആ അളവുമായി ലംബമായി വിന്യസിക്കുന്നു അവിടെ നിന്ന് എനിക്ക് പോകാനും അവിടെ നിന്ന് എനിക്ക് നിർമ്മിക്കാൻ കഴിയും ഇവിടെ നിന്നും നമുക്ക് വരിയിലേക്ക് നീങ്ങാനും അവിടെനിന്ന് പോകാനും സാധിക്കും അതിനാൽ ഇടത് വശത്തെ കാഴ്ചയിൽ നിന്നുള്ളതുപോലുള്ള ആദ്യ ക്വാഡ്രന്റ് പ്രൊജക്ഷനുകൾ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നോക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ മുകളിലെ തലം വലത് പ്രതലം മുൻ പ്രതലം എന്നിവയിലേക്ക് നമ്മൾ ചാടേണ്ടതില്ല 2 ഡി സ്കെച്ചുകൾ നിർമ്മിക്കുന്നതിൽ നമുക്ക് ഒന്ന് ശ്രമിക്കണമെങ്കിൽ ഒരു പ്രതലം മതിയാകും 3 ഡി ഒബ്ജക്റ്റ് ശരിക്ക് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ ഇവ നിർമ്മിക്കുന്നതിനും ഒരു ഓട്ടോമേറ്റഡ് നടപടിക്രമമുണ്ട് ഒന്നാമതായി ഒരു 3D ഒബ്ജക്റ്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പഠിക്കണം ഇപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് പ്ലെയിൻ സാധാരണ മുതൽ ഫ്രണ്ട് പ്ലെയിൻ വരെ ആരംഭിക്കാം ഒരുപക്ഷേ ഇവിടെനിന്നോ അവിടെനിന്നോ ഒരു സ്ട്രെയിറ്റ് സ്ലോട്ട് തിരഞ്ഞെടുക്കാം ഇതൊരു 2 ഡി കാര്യമാണ് എനിക്ക് ചെയ്യേണ്ടത് മറ്റൊരു ദിശയിൽ ലെയർ പോലെയുള്ള മെറ്റീരിയൽ ചേർക്കുക എന്നതാണ് അതിനർത്ഥം കമ്പ്യൂട്ടറിന് സാധാരണയായി ആ കമ്പ്യൂട്ടർ മോണിറ്ററിലേക്ക് ലംബമായി നമ്മൾ നിരവധി ലെയറുകൾ പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കട്ടിയുള്ള ലിങ്ക് കാണാൻ സാധിക്കും അതിനായി നമ്മൾ ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും ആദ്യ ഭാഗം 2 ഡി ആണ് 3 ഡി നിർമ്മിക്കുന്നതിന് 2 ഡി പല പാളികളായി ആവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആദ്യം ആ മുഴുവൻ ഒബ്ജക്റ്റ് സെലക്റ്റ് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഇടത് ബട്ടണിൽ വിരൽ വയ്ക്കുക എന്നാണ് തുടർന്ന് മുൻപ് എല്ലാഭാഗവും തിരഞ്ഞെടുക്കുക ഇപ്പോൾ സ്കെച്ചിന് അടുത്തായി ബട്ടൺ പോലുള്ള ഒന്ന് ഉണ്ട് ഇതാണ് നമുക്കുള്ള സ്കെച്ച് മോഡ് അവിടെ നിന്ന് ഫീച്ചേഴ്സിലേക്ക് പോകുക ഫീച്ചേഴ്സുകൾ ക്ലിക്കുചെയ്യുക എക്സ്ട്രൂഡു ചെയ്ത ബോസ് ബേസ് റിവോൾവ്ഡ് ബേസ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നു എക്സ്ട്രൂഡ് എന്നാൽ ഒരു നിർമ്മാണ മെക്കാനിക്കൽ സാങ്കേതികവിദ്യയാണ് എക്സ്ട്രൂഡ് എന്നാൽ നിങ്ങൾ ആ ദിശയിൽ കൂടുതൽ മെറ്റീരിയലുകൾ പൂരിപ്പിക്കാൻ പോകുന്നു എന്നാണ് അതിനാൽ ആ എക്സ്ട്രൂഡ് ബോസ് തിരഞ്ഞെടുക്കുക തുടർന്ന് ഇത് ഒരു 3 ഡി ഒബ്ജക്റ്റ് കാണിക്കുന്നു അതേ 2 ഡി കോൺഫിഗറേഷൻ കാണിക്കുന്നത് ഒരു ലിങ്ക് പോലെയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദിശാസൂചന എക്സ്ട്രൂഷന്റെ ദിശ പോലുള്ള ചിലത് ഉണ്ട് നിങ്ങൾ ആ ദിശയിലേക്ക് സാധാരണ പോകാനാണോ അല്ലെങ്കിൽ ആ പ്രതലത്തിൽ നിന്ന് അകലെയാണോ ആഗ്രഹിക്കുന്നത് കൂടാതെ റഫറൻസ് പ്രതലത്തിൽ നിന്ന് നിങ്ങൾ എത്ര ദൂരം പോകാൻ ആഗ്രഹിക്കുന്നു എന്നതുപോലെയുള്ള കാര്യമുണ്ട് റഫറൻസ് നിർമ്മിക്കുന്ന പ്രതലത്തെകുറിച്ഛ് നമ്മൾ കൂടുതലറിയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും എന്നാൽ 2 ഡി സ്കെച്ചിൽ നിന്ന് മുൻവശത്തെ പ്രതലം നമ്മൾ 10 മില്ലീമീറ്റർ ആഴമോ ഉയരമോ തിരഞ്ഞെടുത്തു ഈ മെറ്റീരിയൽ പൂരിപ്പിച്ച് പോകുക തുടർന്ന് ഈ ഓക്കേ ബട്ടൺ ക്ലിക്കുചെയ്യുക അതിനുശേഷം അത് ഒരു 3D ഒബ്ജക്റ്റ് നിർമ്മിക്കുന്നു ഇപ്പോൾ 3D ഒബ്ജക്റ്റ് വ്യത്യസ്ത രീതികളിൽ ദൃശ്യവൽക്കരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി നിങ്ങളുടെ സ്ക്രോൾ ബട്ടൺ ക്ലിക്കുചെയ്യുക ക്ലിക്കുചെയ്ത് മൌസ് വ്യത്യസ്ത ദിശകളിലേക്ക് നീക്കുക അതിനാൽ നമ്മൾ ചെയ്യുന്നത് സ്ക്രോൾ ബട്ടൺ അമർത്തിപ്പിടിച്ച് നിങ്ങളുടെ മൌസ് ഇവിടെയും അവിടെയും നീക്കുക നിങ്ങൾക്ക് 3ഡി ഡിമെൻഷനൽ ലഭിക്കും ഇപ്പോൾ 3 ഡി ഒബ്ജക്റ്റിനെ ഓർത്തോഗ്രാഫിക് കാഴ്ചകളിലൊന്നായി ദൃശ്യവൽക്കരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനർത്ഥം ഈ ദിശയിൽ ഈ Z ഡിറക്ഷൻ ദൃശ്യവൽക്കരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആ ലക്ഷ്യത്തിനായി വ്യൂ ഓറിയന്റേഷൻ പോലുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ മുകളിൽ ഒരു ബട്ടൺ ഉണ്ട് നിങ്ങളുടെ സൂം ബട്ടണുകൾ മാഗ്നിഫൈയിംഗ് ലെൻസ് കട്ട് എന്നിവയ്ക്ക് അടുത്തായി വ്യൂ ഓറിയന്റേഷൻ പോലുള്ള എന്തെങ്കിലും ഉണ്ട് അതിൽ ക്ലിക്കുചെയ്യുക വ്യത്യസ്ത കാഴ്ചകളുണ്ട് അതിലൊന്നും ക്ലിക്കുചെയ്യരുത് പക്ഷേ അതിലേക്ക് നിങ്ങളുടെ മൌസ് നീക്കുക ആ നീല പ്രതലത്തിന്റെ ദിശയിലുള്ള ഒരുതരം കാഴ്ച ഇതിൽകാണാം ക്യൂബോയിഡ് ബ്ലോക്ക് അതിലുണ്ട് നീല നിറം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ അത് ക്ലിക്കുചെയ്യുകയാണെങ്കിൽ ക്യൂബോയിഡ് ബ്ലോക്ക് കാണാൻ സാധിക്കും ഒരേ ക്യൂബോയിഡിന് സമാനമായ നീല ഉപരിതലം ഇടത് വശത്തുണ്ട് അതിനാൽ നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ പോകുന്നുവെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക അതുപോലെ വലതുവശത്തെ കാഴ്ച ബോട്ടം വ്യൂ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കും ടോപ് വ്യൂ നിങ്ങൾ എന്തെങ്കിലും കാണാൻ പോകുന്നു അതിനായി ആദ്യം മധ്യഭാഗത്ത് ക്ലിക്കു ചെയ്യുക ഫ്രണ്ട് വ്യൂ നമ്മുക്ക് കാണം അതിനാൽ 3D ഒബ്ജക്റ്റ് ആ ദിശയിലേക്ക് ചരിഞ്ഞതിനാൽ നമുക്ക് ഈ കാഴ്ച മാത്രമേ കാണാൻ കഴിയൂ ഇപ്പോൾ നമുക്ക് അത് ആവശ്യമില്ല പക്ഷേ ഈ പ്രത്യേക കാഴ്ചയിൽ ഒന്ന് കാണാണമെങ്കിൽ ഇപ്പോൾ ഓറിയന്റേഷൻ കാണുക അതിനായി ഈ മുഴുവൻ വസ്തുവും ആ വലതുവശത്തേക്ക് തിരിക്കുന്നു കാണിച്ചിരിക്കുന്നത് ആ ഫേസ് ആണ് അതുപോലെ ഇടതുവശത്തെ ഫേസ് ക്ലിക്കുചെയ്യുക ഇപ്പോൾ ആ ഒബ്ജക്റ്റ് മുഴുവൻ ആ ദിശയിലേക്ക് തിരിയുന്നു അങ്ങനെ ഇടത് വശവും നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നിങ്ങളുടെ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ച് ഒബ്ജക്റ്റ് തിരിക്കാനും കഴിയും നിങ്ങൾ ഇത് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അത് വലുതാക്കുന്നു സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു ഇപ്പോൾ ഒരു ഐസോമെട്രിക് കാഴ്ച പോലുള്ള എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി ക്ലിക്കുചെയ്യുക കാഴ്ചകൾ ഓർത്തോഗ്രാഫിക് കാഴ്ചകളല്ല നീല ബട്ടൺ അതിൽ കാണം എന്നാൽ ഐസോമെട്രിക് പോലെയുള്ളവ കണ്ട്രോൾ പ്ലസ് 7 ഉപയോഗിച്ചു കാണാം അതിനാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ തുടങ്ങുന്ന രീതിയിൽ വിന്യസിക്കുന്നു ഐസോമെട്രിക് പ്രിൻസിപ്പൽ ആക്സിസിനു 120 ഡിഗ്രി ആയി കാണപ്പെടുന്നു അതിനർത്ഥം നമ്മൾ ഇവിടെ അച്ചുതണ്ട് പോലെയുള്ള ഒന്ന് വരയ്ക്കാൻ പോകുകയാണെങ്കിൽ ഒരു കാര്യം അത് ചെയ്യുന്നതെന്താണെന്ന് മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത് 120 ഡിഗ്രിയയിലാണ് ഇപ്പോൾ അതേ ഓർത്തോഗ്രാഫിക് ഐസോമെട്രിക്കിൽ ഇത് താഴേക്ക് ക്ലിക്കുചെയ്യുക ബട്ടൺ പോലുള്ള ഒരു ഡൈമെട്രിക് കാഴ്ചകൾ അതിലുണ്ട് മാനുവൽ ഡ്രോയിംഗിലെ മുമ്പത്തെ ക്ലാസുകളിൽ ഐസോമെട്രിക് ഡൈമെട്രിക് ട്രിമെട്രിക്കിനെക്കുറിച്ച് നമ്മൾ ചിലത് പഠിച്ചു നമുക്ക് ഡയമെട്രിക് ക്ലിക്കുചെയ്യുക നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മുൻ ക്ലാസുകളിൽ കണ്ട ലാത്ത് മെഷീനുകളും മറ്റ് കാര്യങ്ങളും ഉള്ള സാധാരണ യുഎസ് സിസ്റ്റമാണ് ഇപ്പോൾ ട്രിമെട്രിക് കാഴ്ച ക്ലിക്കുചെയ്യുക അതിനാൽ ഇപ്പോൾ ഇത് ചെറുതായി ചരിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ട്രിമെട്രിക് കാഴ്ചയ്ക്കായി മുൻവശം കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആ ദിശയിൽ ഒരു വ്യതിയാനവും ഉണ്ടാകില്ല കാരണം ഇവയാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്ന ഓർത്തോഗ്രാഫിക് കാഴ്ചകൾ ഐസോമെട്രിക്കിൽ നമ്മൾ കാണുന്ന കാഴ്ചയിൽ മാറ്റം വരാം പക്ഷേ നിങ്ങൾ ഓർത്തോഗ്രാഫിക് കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ ഈ വിവരങ്ങൾ മാറില്ല ഇപ്പോൾ ആ ഉപരിതലത്തിലേക്ക് സാധാരണപോലെ എന്തെങ്കിലും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു തുടർന്ന് അത് ആ രീതിയിൽ കറങ്ങുന്നു അതിനാൽ സാധാരണ ഒന്ന് ഈ മുൻ മുഖമാണ് നമുക്ക് മറ്റെന്തെങ്കിലും 3D ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഇതിനു ശ്രമിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷേ ഈ കേന്ദ്രങ്ങളിലൂടെ ദ്വാരങ്ങൾ സൃഷ്ടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു അറ്റത്ത് ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു മറ്റേ അറ്റത്ത് ഒരു ബഹുഭുജ ദ്വാരം പോലെയാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആദ്യം ഇത് ഐസോമെട്രിക് കാഴ്ചയിലേക്ക് ക്രമീകരിക്കാം അതിനായി ഒരു സർക്കിൾ പോലെ ഒരു ബഹുഭുജം പോലെയുള്ള ഒന്ന് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ദ്വാരം നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനാൽ മുൻ പ്രതലം തിരഞ്ഞെടുക്കുക അതിനർത്ഥം ആദ്യം ഞാൻ ഒരു 2 ഡിമെൻഷൻ സ്കെച്ച് പോലെ എന്തെങ്കിലും ഉണ്ടാക്കണം അതിനുശേഷം ഒരു ദ്വാരം ചെയ്യുക അതിനാൽ ആ ആവശ്യത്തിനായി നമ്മൾ പ്രതലത്തിലേക്ക് സാധാരണ നിലയിലേക്ക് പോകുക എവിടെയെങ്കിലും ഒരു സർക്കിൾ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ സർക്കിളിൽ നമ്മൾ എക്സ്ട്രൂഡ് കട്ട് ഉപയോഗിക്കും അതിനായി നമ്മൾ എക്സ്ട്രൂഡ് കട്ട് ക്ലിക്കുചെയ്തു ഇപ്പോൾ നിങ്ങളുടെ സ്ക്രോൾ ബട്ടൺ ക്ലിക്കുചെയ്യുക അത് ആ ദിശയിലേക്ക് നീക്കുക സർക്കിൾ ദിശയിൽ പ്രോട്രൂഷൻ സംഭവിക്കുന്നുവെന്ന് പറയുന്നു അതായത് നമ്മൾ കാണാൻ പോകുന്നത് വെട്ടിക്കുറയ്ക്കുന്ന ദിശ എന്നാൽ ഈ സർക്കിൾ ആ മുഖത്ത് വരച്ചതിനാൽ നമ്മൾ അതിൽ നിന്ന് പോകുകയാണെങ്കിൽ നീക്കംചെയ്യാൻ ഒന്നുമില്ല അതിനാൽ ഈ സ്ഥാനത്ത് ക്ലിക്കുചെയ്തുകൊണ്ട് നമ്മൾ കട്ടിന്റെ ദിശ മാറ്റണം അതിനുള്ള സംവിധാനം നമുക്ക് കാണാൻ സാധിക്കും അതിനാൽ നമ്മൾ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ വെട്ടിക്കുറയ്ക്കുന്ന ദിശയാണ് ഈ ത്രിമാന ഒബ്ജക്റ്റിനായി ആ സർക്കിളിനായി ഇത് വീണ്ടും ചെയ്യാം ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ളിൽ ഫീച്ചർസ്സിലേക്ക് പോയി മെറ്റീരിയലുകൾ പൂരിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്തതിനാൽ ബാറുകൾ പുറത്തെടുക്കരുത് മെറ്റീരിയൽ നീക്കംചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എക്സ്ട്രൂഡ് കട്ട് ചെയ്യാൻ പോകുക കട്ട് ദിശ കാണിക്കുന്നത് ഒബ്ജക്റ്റിൽ നിന്ന് നീക്കംചെയ്യാൻ ഒന്നുമില്ല അതിനാൽ നമ്മൾ മുന്നോട്ട് പോയി ദിശ തിരിച്ചിട്ടത് കട്ടിന്റെ ആഴം 20 യൂണിറ്റുകൾ ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു തുടർന്ന് ഓക്കേ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഒരു ദ്വാരം ശരിയാക്കുന്നുത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ നിർമ്മിക്കാനോ ചേർക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നു ആ ലിങ്കിൽ നിന്ന് പുറത്തുവരുന്ന ഒരു പോളിഗോണൽ യുഎച് പ്രിസം പോലെയുള്ള ഒരു മെറ്റീരിയൽ ഇവിടെ ചേർക്കുക അതാണ് നമുക്ക് താൽപ്പര്യമുള്ളത് അതിനാൽ സ്കെച്ചു നിർമിക്കേണ്ട ഭാഗത്തു ഒരു നോർമൽ വരക്കുക ഒരുപക്ഷേ ഇത് പോളിഗോൺ ആയിരിക്കാം 4 യൂണിറ്റുകളുടെ ഒരു പോളിഗോൺ നമ്മുക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു ചതുരം നിർമിക്കുക അവിടെ നിന്ന് കേന്ദ്രീകൃതമായ നമ്മൾ ഒരു സമചതുരം ഉപയോഗിക്കാൻ പോകുന്നു ഇപ്പോൾ നമുക്ക് ഈ സർക്കിൾ ആവശ്യമില്ല അതിനാൽ ആ സർക്കിൾ നീക്കംചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ചതുരമായാണ് പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനായി ആദ്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം ഹൈലൈറ്റ് എന്നാൽ ഇടത് ബട്ടൺ ക്ലിക്കുചെയ്യുക ആ ഹോൾഡിന് മുകളിലൂടെ പോയതിനുശേഷം അത് ഉപേക്ഷിക്കുക അതിനാൽ എല്ലാം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഫീച്ചേഴ്സിലേക്ക് പോകുക നമുക്ക് എന്താണ് ചെയ്യേണ്ടത് മെറ്റീരിയൽ പൂരിപ്പിക്കുക അതിനാൽ ആ വസ്തുവിൽ നിന്ന് ഒരു പ്രിസത്തിനു പുറത്തുവരാൻ കഴിയും അതിനാൽ ബോസിനെ പുറത്തെടുക്കുക ഇപ്പോൾ നമ്മൾ എത്രത്തോളം അറിയാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത്രയധികം ഭാഗം അല്ലെങ്കിൽ ഒരുപക്ഷേ 30 യൂണിറ്റുകളോളം ദൈർഘ്യമേറിയത് ആണ് നമ്മൾ പോകുന്നത് ആ ദിശയിലാണോ പൂരിപ്പിക്കാൻ നമ്മൾ അത് പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ആ ദിശയിലേക്ക് മാറ്റും ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആ ലിങ്കിൽ നിന്ന് മെറ്റീരിയൽ ചേർക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി ചെയ്തതിനുശേഷം ഓക്കേ ക്ലിക്ക് ചെയ്യുക അത് 3 ഡി ഒബ്ജക്റ്റ് സൃഷ്ടിക്കുന്നു അതിനാൽ നമുക്ക് ആ ലിങ്ക് നോക്കാം ഇപ്പോൾ നമുക്ക് ചതുരശ്ര തരത്തിലുള്ള ലിങ്ക് ആവശ്യമില്ല പക്ഷേ ട്രേപ്സോയിഡൽ തരത്തിലുള്ള പ്രിസം പിരമിഡ് പോലെ പുറത്തുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആവശ്യത്തിനായി ഈ വശം ഉപയോഗിക്കാവുന്നതാണ് അതിനാൽ ആദ്യം അത് സാധാരണമാണ് ഇവിടെ നമ്മൾ മറ്റൊന്ന് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വൃത്താകൃതി പരീക്ഷിക്കുക അതിനായി നമ്മൾ ആഗ്രഹിക്കുന്ന സർക്കിൾ നിർമിക്കുക മെറ്റീരിയൽ പൂരിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആദ്യം നമ്മൾ അത് തിരഞ്ഞെടുത്തു തുടർന്ന് ഫിച്ഴ്സിലേക്ക് പോകുക ആദ്യം ഒബ്ജക്റ്റ് തിരിക്കുക തുടർന്ന് എക്സ്ട്രൂഡ് ബോസ് ഇത് സിലിണ്ടർ പോലെയുള്ള ഒന്ന് നിർമ്മിക്കാമെന്ന് കാണിക്കുന്നു പക്ഷേ ടേപ്പർ പോലുള്ളവ 1 ഡിഗ്രി 10 ഡിഗ്രി 20 ഡിഗ്രി എന്നിവ നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽനമ്മൾ 30 ഡിഗ്രി ടേപ്പർ നൽകാൻ പോകുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന 20 ഡിഗ്രി ടേപ്പർ നൽകുക അപ്പോൾ നീളം നമുക്ക് 30 മില്ലീമീറ്റർ നൽകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന 20 മില്ലീമീറ്റർ പോലുള്ള അളവ് നൽകുക അതിനാൽ നമുക്ക് ടാപ്പർ സിലിണ്ടർ കാണാൻ സാധിക്കും ഈ 3D ഒബ്ജക്റ്റുകൾ നിർമ്മിക്കുന്ന രീതി നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇതിനായുള്ള വ്യത്യസ്ത കാഴ്ചകൾ നോക്കാം ഐസോമെട്രിക് ഐസോമെട്രിക് കാര്യം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഫ്രണ്ട് വ്യൂ എന്താണ് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ ഈ ഒബ്ജക്റ്റ് മുഴുവൻ നമ്മൾ ഫ്ലിപ്പുചെയ്യുകയാണെങ്കിൽ ലിങ്ക് പോലൊന്ന് അതിൽ കാണും ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരം ഉണ്ടാകും അവിടെ നിങ്ങൾ എന്താണ് കാണുന്നത് നമുക്ക് കാണേണ്ടത് ഏകാഗ്ര സർക്കിളുകളാണ് അതിനാൽ ലൈറ്റിംഗ് കാരണം ഒരു 3 ഡയമെൻഷണൽ വൃത്തമുണ്ടെന്നും ഒരു കേന്ദ്രീകൃത വൃത്തമുണ്ടെന്നും ആ വസ്തുവിൽ വെളിച്ചം സോളിഡ് വർക്കുകൾ മുഴുവൻ ശക്തിയും ശ്രദ്ധാപൂർവ്വം നൽകിക്കൊണ്ട് ഈ തലത്തിൽ വരുന്നു ഒരു 3 ഡയമെൻഷണൽ സംഗതി പോലെയുള്ള ഒന്ന് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നിത്തുടങ്ങി ആ വസ്തുവിനെ ദൃശ്യവൽക്കരിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു അതിനാൽ നമുക്ക് ഇത് നോക്കാം ഇപ്പോൾ ഒരു കട്ട് സെക്ഷൻ ഇതിലൂടെ കടന്നുപോകുക ഒപ്പം മുൻഭാഗം നീക്കംചെയ്യുക എന്നുള്ളവ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആ ആവശ്യത്തിനായി നമ്മൾ എന്തുചെയ്യും വിഭാഗ കാഴ്ച പോലുള്ള ചിലത് ഉണ്ട് ഹാഷ് ചെയ്ത ഭാഗം കാണിക്കുന്ന ഒരു ലിങ്ക് കാണാം അതിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്ലൈസ് ചെയ്യുക എന്നതാണ് അല്ലെങ്കിൽ ഈ വിഭാഗം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ആംഗിൾ മാറ്റേണ്ടതുണ്ടോ അതിനാൽ ആ വിഭാഗം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യത്യസ്ത പ്രതലങ്ങളുണ്ട് എന്നിട്ടും നിങ്ങൾ കാണാത്ത പിൻവശം നീക്കംചെയ്തിട്ടില്ല നിങ്ങൾ മുൻഭാഗം നീക്കംചെയ്യുമ്പോൾ വിഭാഗീയ കാഴ്ചകൾ പ്രവർത്തിക്കുന്ന രീതിയാണിത് ആ വിഭാഗത്തിലൂടെ തിരശ്ചീനമായ ഒരു സ്ലൈസ് കടന്നുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി നീക്കംചെയ്ത മുകളിലെ ഭാഗം എന്തായാലും പച്ച നിറത്തിന് പകരം നീല നിറം നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നമുക്ക് എല്ലായ്പ്പോഴും മറ്റേതെങ്കിലും തരത്തിലുള്ള ഹാഷ് നിറങ്ങൾ നൽകാൻ കഴിയും ഉദാഹരണത്തിന് നമ്മുക്ക് കുങ്കുമം നൽകാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് അത് നിർമ്മിക്കാൻ കഴിയും നിങ്ങൾ ക്ലിക്കുചെയ്യുക നിങ്ങൾ ശരി ക്ലിക്കു ചെയ്യുകയാണെങ്കിൽ അത് ഈ വിഭാഗത്തിൽ സ്ഥിരതാമസമാക്കുന്നു ഒരുപക്ഷേ ഈ വിഭാഗം മുകളിലേക്കും താഴേക്കും നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് 0 എന്നതിനുപകരം നമുക്ക് 5 മില്ലീമീറ്റർ നൽകാം അതിനാൽ സ്ലൈസ് 10 മില്ലീമീറ്റർ നമ്മൾ മുകളിലേയ്ക്ക് നീക്കുക അതിനായി വിഭാഗീയ കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് മൈനസ് 5 മില്ലീമീറ്റർ പോലുള്ള എന്തെങ്കിലും നൽകാം അതിനായി അത് താഴേക്ക് പോയി ഇപ്പോൾ ഓക്കേ ക്ലിക്കുചെയ്യുക നമ്മൾ കാണുന്നത് ഐസോമെട്രിക് കാഴ്ചയുള്ള ഐസോമെട്രിക് കോണുള്ള വിഭാഗീയ കാഴ്ചയാണ് ഇപ്പോൾ മുൻവശം ഒന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ബാക്ക്സൈഡ് പതിപ്പ് ദൃശ്യമാകില്ല അതിനാൽ നമ്മൾ കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ വിഭാഗങ്ങളിൽ ഈ മറഞ്ഞിരിക്കുന്ന വരികൾ കാണിക്കില്ല ഇപ്പോൾ മുകളിൽ നിന്ന് ഇത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ തലത്തിൽ നിങ്ങൾക്കുള്ള അതേ പ്രാതിനിധ്യം നിങ്ങൾ വരച്ചതിന്റെ 2 ഡി സ്കെച്ച് ചെയ്യുന്നു കാരണം മുൻ ദിവസങ്ങളിൽ 50 60 വർഷം മുമ്പുള്ള ആളുകൾ ഡ്രോയിംഗ് പ്രൊഡക്ഷൻ ഡ്രോയിംഗ് എന്നിവയെല്ലാം 2 ഡി ഡ്രോയിംഗുകളിലൂടെ ആശയവിനിമയം നടത്തുന്നു എന്നാൽ ഇപ്പോൾ ഈ 3 ഡി സോഫ്റ്റ്വെയർ ഒബ്ജക്റ്റ് രൂപകൽപ്പന ചെയ്യുന്നതിന് ദൃശ്യവൽക്കരിക്കാൻ നിങ്ങൾ സഹായിക്കുക കാരണം ചില ഡിസൈനുകൾ ഉദാഹരണമായി ഈ ടാപ്പറിംഗ് സംഭവിച്ചാലും ഇല്ലെങ്കിലും കമ്പ്യൂട്ടർ തലത്തിൽ ഇവയെല്ലാം എത്രമാത്രം ടോളറൻസ് നൽകേണ്ടതുണ്ട് നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ നിർമ്മിക്കാൻ കഴിയും നിങ്ങൾ ഒരു ഭാഗം നിർമ്മിക്കുന്നു നിങ്ങളുടെ സുഹൃത്ത് മറ്റൊരു ഭാഗം നിർമ്മിക്കും തുടർന്ന് നിങ്ങൾ ജോയിന്റ് joint ചെയ്യുക തുടർന്ന് നിങ്ങൾ അത് ഡ്രോയിംഗുകളായി കൈമാറും കമ്പ്യൂട്ടറുകളിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ സാധ്യമാകൂ കൂടാതെ നിങ്ങൾക്ക് ഡ്രോയിംഗ് ആവർത്തിക്കാനാകും നിങ്ങൾക്ക് ഒന്നിലധികം പകർപ്പുകൾ സംരക്ഷിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇത് നിമിഷങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കാൻ കഴിയും ബാക്കി അടുത്ത ക്ലാസ്സിൽ ഈ 3 ഡയമെൻഷണൽ ഡ്രോയിംഗുകളെക്കുറിച്ച് 3 dimensional drawings നിങ്ങൾ കൂടുതലറിയും